പ്രൊഫസർ സ്വാഗതം എല്ലാവർക്കും സമാനുഭാവം നേടുക എന്നതിൻറെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒരു വ്യക്തിയുടെ കസ്റ്റമർജേർണി മാപ്പിംഗ് നടത്തിക്കഴിഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ മറ്റൊരു വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മൂന്നോ നാലോ വ്യക്തികളുടെ വ്യക്തിത്വങ്ങൾ വികസിപ്പിച്ച് എടുത്താൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എൻറെ സഹപ്രവർത്തകർ രണ്ടാമത്തെ കസ്റ്റമർജേർണി മാപ്പിംഗ് വികസിപ്പിച്ചെടുക്കാൻ തയ്യാറായിട്ടുണ്ട് Siddharth Maturi ഒന്നാമത്തെ വീഡിയോയിൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയെയാണ് പരിഗണിച്ചത് ഇപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോകുന്ന ഒരു കുട്ടിയെ പരിഗണിക്കുന്നു ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥി 24 25 വയസ്സുള്ള ഒരു കുട്ടി Nithin Kurian അവൻറെ പേര് Prince എന്ന് കൊടുക്കാം Professor ആദ്യത്തെ ആൾ സാം രണ്ടാമത്തെ ആൾ Prince Nithin 24 വയസ്സുള്ള Prince Siddharth 24 വയസ്സുള്ള ഒരാളാണ് Nithin ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് Siddharth ഡൽഹിഇന്ത്യ ജോഗ്രഫിമനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ വ്യക്തിത്വം ഉണ്ടാക്കാനുള്ള അടിസ്ഥാനകാര്യങ്ങൾ ഇതാണ് Nithin എന്താണ് Princeചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി Siddharth ഒരു സ്കൂൾ വിദ്യാർഥി എങ്ങനെയാണ് നോട്സ് എഴുതി എടുക്കുന്നത് എന്ന കാര്യം നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞു അടുത്തതായി വീട്ടിൽ പോയി പഠിക്കുന്ന ആക്ടിവിറ്റി എടുക്കാം Nithin ഓക്കേ നമ്മൾ വീണ്ടും ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് പരിഗണിക്കുക ആക്ടിവിറ്റി ചെയ്യുന്നതിനു മുമ്പ് മുമ്പ് ആക്ടിവിറ്റിയുടെ ഇടയിൽ ആക്ടിവിറ്റി ക്കു ശേഷം എന്നിങ്ങനെ പരിഗണിക്കണം Siddharth സ്ഥലം കണ്ടുപിടിക്കണം ശരിയായ സ്ഥലം കണ്ടുപിടിക്കണം ബുക്കുകളും അവനെ വേണ്ട വസ്തുക്കളും എടുത്തു വയ്ക്കുന്നതിനു വേണ്ടി Nithin അത് ശരിയാണ് പഠിക്കുവാൻ വേണ്ട അത്യാവശ്യ വസ്തുക്കൾ ഒരു സ്ഥലത്ത് വെക്കണം അതിൻറെ അടുത്ത് ഇരുന്നുകൊണ്ട് പഠിക്കുവാൻ സാധിക്കണം അവൻറെ ബെഡ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ആയിരിക്കാം Siddharth ഇത് രണ്ടാമത്തെ കാര്യമാണ് ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നു Nithin അതേ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് Siddharth അവൻറെ നോട്സ് ഓപ്പൺ ചെയ്യുന്നു അവൻറെ ടെസ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു പഠിക്കുന്നതിന് മുന്നേഉള്ള ഒരു അടിസ്ഥാന ആക്ടിവിറ്റി ആണത് Nithin പഠനം ആക്ടിവിറ്റി ശരിയല്ലേ Siddharth മറ്റെന്തെങ്കിലും Suprativ ഇതൊക്കെ അടിസ്ഥാന കാര്യങ്ങളാണ് Siddharth എങ്ങനെ മുന്നോട്ടു പോകും മറ്റെന്തെങ്കിലും ഉണ്ടോ സാർ പ്രൊഫസർ Ok കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു Nithin ആക്ടിവിറ്റിയുടെ ഇടയിൽ Siddharth അതെ ആക്ടിവിറ്റിയുടെ ഇടയിൽ Student 2 ആദ്യത്തെ കാര്യം ഒന്നുകിൽ ടെസ്റ്റ് വായിക്കുവാൻ അല്ലെങ്കില് ചാപ്റ്റർ പഠിക്കുന്നതിനു വേണ്ടി അവൻ തയ്യാറാക്കിയ നോട്ട് വായിക്കുന്നതാണ് Siddharth ശരിയാണ് ആ ടോപിക്കിനെ വേണ്ട notes വായിക്കണം Nithin അത് ആക്ടിവിറ്റി ഒന്നായിരിക്കും Siddharth പഠനം ആരംഭിക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യം Nithin ശരിക്കുള്ള പഠനം ആരംഭിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം Siddharth അത് ഡി വൺ ആദ്യത്തെ ആക്ടിവിറ്റിയുടെ സമയം Nithin ഒന്നുകിൽ അവൻ എഴുതുക ആയിരിക്കും അല്ലെങ്കിൽ വരയ്ക്കുക ആയിരിക്കും Siddharth നോട്സ് എഴുതുകയാണ് Nithin അതെ notes എഴുതുകയാണ് Suprativ പ്രാക്ടീസിന് വേണ്ടി എഴുതുന്നു Nithin പ്രാക്ടീസിന് വേണ്ടി എഴുതുന്നു Siddharth പ്രാക്ടീസിന് വേണ്ടി എഴുതുന്നു Nithin അതെ Suprativ Notes എഴുതുമ്പോൾ ആ വിദ്യാർഥിക്ക് എന്തെങ്കിലും റഫറൻസ് മെറ്റീരിയൽ ആവശ്യമുണ്ടോ Nithin എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുവെച്ചാൽ ഇന്നത്തെ കാലത്തെ ആശയം മനസ്സിലാക്കാൻ വേണ്ടി അധികമാളുകളും യൂട്യൂബ് വീഡിയോ കാണുന്നു അല്ലെങ്കിൽ ഓൺലൈൻ ചെക്ക് ചെയ്യുന്നു സംശയമുണ്ടെങ്കിൽ അങ്ങനെയാണ് പഠിക്കുന്നത് Siddharth കാര്യങ്ങൾപരിപൂർണ്ണമായി മനസ്സിലാക്കാൻ ഓൺലൈൻ ഉപയോഗിക്കാവുന്നതാണ് Nithin അതെ സംശയമുള്ള Topics Shyam ഓൺലൈൻ ബുക്കുകളും ഓഫ്ലൈൻ ബുക്കുകളും ഉപയോഗിക്കേണ്ടി വരുന്നതാണ് Nithin റഫറൻസ് ബുക്കുകൾക്ക്പകരമായി ഓൺലൈൻ ചെക്കിങ് Siddharth ഓൺലൈൻ റഫറൻസ് മെറ്റീരിയൽ Suprativ റഫറൻസ് മെറ്റീരിയൽ Nithin കൂടുതൽ പഠിക്കുന്നതിനു വേണ്ടി ഓഫ് ലൈൻ reference മെറ്റീരിയൽ Siddharth കൂടുതൽ പഠിക്കുന്നതിനു വേണ്ടി reference മെറ്റീരിയൽ അത് മൂന്നാമത്തെ ആക്ടിവിറ്റി Nithin ഇപ്പോൾ പഠിക്കുന്നത് നേരത്തെ പഠിച്ച ചില ഭാഗങ്ങൾ തന്നെ ആയിരിക്കാം അവൻ റിവിഷൻ ചെയ്യുകയായിരിക്കും നേരത്തെ എഴുതിയ നോട്ട് വീണ്ടും നോക്കുക ആയിരിക്കാം Siddharth അവൻറെ നേരത്തെ പഠിച്ച കാര്യങ്ങളുടെ കൂടെ പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാം Nithin അങ്ങനെ വരുമ്പോൾ നേരത്തെ പഠിച്ചതും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ടായിരിക്കും Siddharth ശരിയാണ് നേരത്തെയുള്ള നോളജ്ജും ഇപ്പോഴത്തെ നോളജ്ജും തമ്മിൽ ഒരു ബന്ധം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്ടിവിറ്റിയുടെ ഇടയിൽ ഉള്ളതായി കണക്കുകൂട്ടാം ആക്ടിവിറ്റി ശേഷം എന്തൊക്കെ ചെയ്യുന്നു ചിന്തിക്കണം Nithin ശരിയാണ് അവൻ പഠിച്ചതും വായിച്ചതും മനസ്സിലാക്കിയതും ശരിയാണോഎന്ന് ചെക്ക് ചെയ്യും Siddharth അവൻ പരിശോധിക്കണം അവനവനെത്തന്നെ പരീക്ഷിക്കണം പുതിയ ടോപ്പിക്ക് അവന് ശരിക്കും മനസ്സിൽ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം പരീക്ഷയിൽ പോസിറ്റീവ് ആണെങ്കിൽ വിദ്യാർത്ഥിക്ക്ക്ക്ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണം Nithin മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല Siddharth ശരിയാണ് ടെസ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ സാധിക്കും നെഗറ്റീവ് ആണെങ്കിൽ അവൻ ടെസ്റ്റ് പരാജയപ്പെട്ടു Nithin അങ്ങനെ വരുമ്പോൾ അവൻ വീണ്ടും പഠിക്കേണ്ടി വരും Siddharth ഡി വൺ Nithin പഠിക്കുന്നതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റിഅല്ലേ ഡി വൺ Siddharth പിന്നിലേക്ക് പോവുക Nithin വീണ്ടും ആ ആശയം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക Siddharth അതേ ടോപ്പിക്ക് Professor അതേ Loops അസാധാരണമല്ല ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഒരു arrow ചിഹ്നം ഉപയോഗിച്ച് കാണിക്കാൻ സാധിക്കും ആക്ടിവിറ്റി കൂടുതൽ സങ്കീർണ്ണമായി തീരുമ്പോൾ കൂടുതൽ Loops വേണ്ടിവരും Siddharth ടെസ്റ്റിനുശേഷം ചെയ്യേണ്ട രണ്ടു കാര്യങ്ങൾ ഇതൊക്കെയാണ് Professor അത് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഡി വണ്ണിലേക്ക് പോകുന്നതാണ് ഒരു ഫ്ലോചാർട്ട് പോലെ Siddharth പരീക്ഷ നടത്തിക്കഴിഞ്ഞു വിജയിച്ചാൽഅവൻ അടുത്ത ടോപ്പിക്ക് ലേക്ക്പോകും Nithin അടുത്ത ടോപ്പിക്ക് ലേക്ക്പോകും Siddharth അടുത്തടോപ്പിക്ക്ലേക്ക് പോകും അത് മൂന്നാമത്തെ Step Professor തീർച്ചയായിട്ടും Nithin അടുത്ത ടോപ്പിക്ക് ലേക്ക്പോകുംവീണ്ടും പോകുന്നു വീണ്ടും ആരംഭിക്കുന്നു ആരംഭിക്കുന്നു Professor ശരി Siddharth ശരിയാണ് അങ്ങനെ വിചാരിക്കാം Nithin പഠനത്തിൻറെ ഒരു സൈക്കിൾ Siddharth വീട്ടിലേക്ക്പോയതിനു ശേഷം ഉള്ള Prince ൻറെപഠന ആക്ടിവിറ്റി Professor കൈയ്യക്ഷരം കാണുന്നു Logical flow കാണുന്നു Siddharth B1 ലേക്ക് പോകാവുന്നതാണ് നോട്ടുബുക്കുകൾ ടെക്സ്റ്റ് ബുക്കുകൾ സ്റ്റഡി മെറ്റീരിയൽ ഇതെല്ലാം ലഭിക്കുന്ന ഒരു കാര്യം അവിടെ Princeവിദ്യാർത്ഥിക്ക് സന്തോഷം ഉണ്ടായിരിക്കും Suprativ ഇതെല്ലാം ലഭ്യമായിരിക്കുന്നു Siddharth ഇതെല്ലാം arrange ചെയ്യുമ്പോൾ യാതൊരു വികാരവും ഇല്ല Suprativ യാതൊരു വികാരവും ഇല്ല Nithin ഒരു മുഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് ഒരു ബുക്കിൽ ഏതു ചാപ്റ്റർ ആരംഭിക്കണമെന്ന ഒരു സംശയം ഉണ്ടായിരിക്കാം അവൻ ഒരുപക്ഷേ ടെസ്റ്റ് ബുക്കിലെ കീവേഡുകൾഅന്വേഷിക്കുക ആയിരിക്കും ആദ്യമായിട്ടാണ് ടെസ്റ്റ് ബുക്ക് ഉപയോഗിക്കുന്ന എങ്കിൽ കീവേഡുകൾ പറ്റിയുള്ള വിവരം ഉണ്ടായിരിക്കില്ല Shyam Confusion ഉണ്ടായിരിക്കാം Nithin ആശയക്കുഴപ്പം മോശമാണ് Siddharth കൺഫ്യൂഷനും വിഷമവും നോട്ട് വായിക്കുമ്പോഴും ചാപ്റ്റർ വായിക്കുമ്പോഴും സന്തോഷവാനായിരുന്നു സന്തോഷമുള്ള Prince ഒരു ലേണിങ് ആക്ടിവിറ്റി ആണ് Nithin yes ലേണിങ് ആക്ടിവിറ്റി Siddharth ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോൾ Offline reference materials ചെക്ക് ചെയ്യുമ്പോൾഅവൻ സന്തോഷവാനായിരുന്നു Nithin മറ്റൊരുകാര്യം സ്പേസ്ൻറെ കാര്യമാണ് ഓഫ്ലൈൻ ഉപയോഗിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ പരിശോധിക്കേണ്ടി വരുന്നതാണ് അതിനു സ്ഥലം വേണം ഓൺലൈൻ ചെക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ് ഉപയോഗിക്കേണ്ടിവരും അതിനു സ്ഥലം വേണം Siddharth ഒക്കെ അതും ശരിയാണ് അത് ശ്രദ്ധിക്കണം Nithin ഒക്കെ Siddharth പണ്ടത്തെ നോളജ് ഇപ്പോഴത്തെ നോളജ് എന്നിവ തമ്മിൽ ബന്ധം ഉണ്ടാക്കൽ Nithin പോസിറ്റീവ് സുഖമാണ് വസ്തുതകൾ മനസ്സിലാക്കുകയും കണക്ട് ചെയ്യുകയും എന്നുള്ളത് Shyam ഫൈൻ Siddharth ആക്ടിവിറ്റിയുടെ ഇടയിൽ ഇമോഷൻ ഉണ്ടായിരിക്കും ആക്ടിവിറ്റി ശേഷവും ഇമോഷൻ ഉണ്ടായിരിക്കുന്നതാണ് Nithin ആകാംഷ ഉണ്ടായിരിക്കുന്നതാണ് Shyam പഠിച്ചു എന്ന് ആകാംക്ഷ Siddharth സങ്കടമില്ല സന്തോഷവും ഇല്ല Suprativ വിരോധാഭാസം അവനെ ബാധിച്ചിരിക്കുന്നു Siddharth വിരോധാഭാസം അവനെ ബാധിച്ചിരിക്കുന്നു Nithin പോസിറ്റീവ് റിസൾട്ട് ആണ് Suprativ അങ്ങനെ ആണെങ്കിൽ തീർച്ചയായും സന്തോഷവാനായിരിക്കും Shyam അതേ പരാജയപ്പെട്ടാൽഅവൻ ദുഃഖിതൻ ആയിരിക്കും Siddharth D1ലേക്ക് പോകേണ്ടി വരും അത് വിഷമമാണ് Professor വളരെ നന്നായി രണ്ട് വ്യക്തികളുടെ വ്യക്തിത്വം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഉപഭോക്തൃ യാത്രാമാപ്പിംഗ്വഴി രണ്ടാമത്തെ വ്യക്തിയുടെ വ്യക്തിത്വം വികസിപ്പിച്ചെടുത്ത തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആദ്യം ആലോചിക്കേണ്ടത്കസ്റ്റമറുടെ വയസ്സാണ് പിന്നെ ജോഗ്രഫി പിന്നെ പേരാണ് ആണാണോ പെണ്ണാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് പിന്നെ ആക്ടിവിറ്റി ചെയ്യുന്നതിനു മുമ്പ് ആക്ടിവിറ്റിയുടെ ഇടയിൽ ആക്ടിവിറ്റി ക്കു ശേഷം എന്നിങ്ങനെ പരിഗണിക്കണം